നമസ്കാരം ഈ ആഴ്ചയിൽ നമ്മൾ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളിലുള്ള നമ്മളുടെ പുതിയ മൊഡ്യൂൾ ആരംഭിക്കും രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ എന്താണെന്ന് നമുക്ക് മനസിലാക്കാം അടിസ്ഥാനപരമായി രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ഒരു ജോഡി ടെർമിനലുകളല്ലാതെ മറ്റൊന്നുമല്ല അതിലൂടെ ഒരു കറന്റ് ഒരു നെറ്റ്വർക്കിൽ വരികയോ പോകുകയോ ചെയ്യാം പോർട്ട് നെറ്റ്വർക്കിലേക്കുള്ള ഒരു വഴി മാത്രമാണെന്നും ഒരു ജോഡി ടെർമിനലുകൾ ഉൾക്കൊള്ളുന്നുവെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയും ഒരു ടെർമിനലിൽ വരുന്ന കറന്റ് മറ്റൊരു ടെർമിനലിലൂടെ പോകുന്നു അതിനാൽ പോർട്ടിൽ വരുന്ന കറന്റ് പൂജ്യത്തിന് തുല്യമായിരിക്കും റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ഇൻഡക്ടറുകൾ resistors capacitors inductor എന്നിങ്ങനെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത രണ്ട് ടെർമിനൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളെ ഒരു പോർട്ട് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു ഇതിനർത്ഥം സർക്യൂട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത് നമുക്ക് റെസിസ്റ്ററുകൾ ഉണ്ട് കൂടാതെ നെറ്റ്വർക്കിലൂടെ ഒഴുകുന്ന കറന്റ് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു ഇപ്പോൾ നിങ്ങൾ തെവെനിൻ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്താണ് നിങ്ങൾ സാധാരണയായി തെവെനിൻ വോൾട്ടേജ് തെവെനിൻ റെസിസ്റ്റൻസ് എന്നിവ പോലെ പ്രതിനിധീകരിക്കുന്നു സർക്യൂട്ടിൽ രണ്ട് ടെർമിനലുകൾ ഉണ്ടെന്ന് ഇവിടെ നിങ്ങൾ കാണും അതിനാൽ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളെ ഒരു പോർട്ട് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു കാരണം ഇവിടെ രണ്ട് ടെർമിനലുകൾ മാത്രമേ കാണുന്നുള്ളൂ രണ്ട് ടെർമിനലുകൾ ഒരൊറ്റ പോർട്ടിനെ സൂചിപ്പിക്കും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത സർക്യൂട്ടിൽ ഭൂരിഭാഗവും രണ്ട് ടെർമിനൽ അല്ലെങ്കിൽ ഒരു പോർട്ട് നെറ്റ്വർക്കുകളായിരുന്നു അവിടെ നമ്മൾ അവയെ ഒരു തെവെനിൻ സമാങ്കമായി പ്രതിനിധീകരിക്കുകയും സർക്യൂട്ടിന്റെ വിവിധ പാരാമീറ്ററുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പൊതുവേ നെറ്റ്വർക്കിന് n പോർട്ടുകൾ ഉണ്ടാകാം അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിൽ നമ്മൾ എന്തുചെയ്യും പ്രധാനമായും രണ്ട് പോർട്ട് നെറ്റ്വർക്കുകൾ നമ്മൾ ചർച്ച ചെയ്യും എന്താണ് രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുമായി രണ്ട് പ്രത്യേക പോർട്ടുകളുള്ള ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കാണ് രണ്ട് പോർട്ട് നെറ്റ്വർക്ക് നിങ്ങൾ ഈ പ്രത്യേക ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് ഒരു പോർട്ട് നെറ്റ്വർക്കാണ് അവിടെ കറന്റ് ലീനിയർ നെറ്റ്വർക്കിലേക്ക് പോയി മറ്റേ ടെർമിനലിൽ നിന്ന് പുറത്തുവരുന്നു ഈ രണ്ട് ടെർമിനലുകൾക്ക് കുറുകെ വോൾട്ടേജ് പ്രയോഗിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒരു പോർട്ട് നെറ്റ്വർക്കാണ് കാരണം ഇതിന് രണ്ട് ടെർമിനലുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ട് ടെർമിനലുകളുടെ ജോടി ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് രണ്ട് പോർട്ടുകൾ ഉണ്ടാകും എന്നാണ് അപ്പോൾ നിങ്ങൾ നെറ്റ്വർക്കിന്റെ കറന്റ് നൽകും എന്ന് പറയുക അത് മറ്റേ ടെർമിനലിൽ നിന്ന് പുറത്തുവരും മറ്റേ പോർട്ടിൽ നിങ്ങൾ കറന്റ് നൽകും അത് മറ്റേ ടെർമിനലിൽ നിന്ന് പുറത്തുവരികയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് രണ്ട് വശത്തും രണ്ട് വോൾട്ടേജ് സ്രോതസ്സുകൾ അല്ലെങ്കിൽ രണ്ട് വശങ്ങളിൽ രണ്ട് കറന്റ് സ്രോതസ്സുകൾ സ്ഥാപിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെർമിനലിന്റെ കുറുകെ റെസിസ്റ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്റ്റർ സ്ഥാപിച്ച് ആ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് കണക്കാക്കേണ്ട മൂല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം രണ്ട് പോർട്ട് നെറ്റ്വർക്കിന് രണ്ട് ടെർമിനൽ ജോഡികളുണ്ട് ഈ ചിത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പ്രവേശന വഴികളായി ഇവ പ്രവർത്തിക്കുന്നു ഒരു പോർട്ട് നെറ്റ്വർക്കും രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് ഇപ്പോൾ രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ സ്വഭാവത്തിന് രണ്ട് പോർട്ട് നെറ്റ്വർക്കിൽ നിങ്ങൾ കാണുന്ന ടെർമിനൽ അളവുകൾ നമ്മൾ ബന്ധപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഇടത് വശത്തെ ടെർമിനൽ ജോഡിക്ക് കുറുകെ പ്രയോഗിക്കുന്നു ഒപ്പം വലതുവശത്തെ ടെർമിനൽ ജോഡിക്ക് കുറുകെ V2 പ്രയോഗിക്കുന്നു പോർട്ട് 1 ൽ നിന്ന് ഉം പോർട്ട് 2 ൽ നിന്ന് ഉം ഒഴുകുന്നു അതിനാൽ നമ്മൾ എന്തുചെയ്യണം രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ സ്വഭാവം വിശദീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നിവയുടെ മൂല്യങ്ങൾ നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ നമുക്ക് നാല് വേരിയബിളുകൾ ഉള്ളതിനാൽ കുറഞ്ഞത് അതിൽ 2 എണ്ണം നിങ്ങൾ ഒരു സ്വതന്ത്ര അളവാക്കി മാറ്റണം അങ്ങനെ നിങ്ങൾക്ക് സർക്യൂട്ട് പാരാമീറ്ററുകൾ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ സർക്യൂട്ട് പാരാമീറ്ററുകൾ എന്നാൽ വോൾട്ടേജുകളുമായും കറൻറുകളുമായും ബന്ധപ്പെട്ട വിവിധ പദങ്ങളെ സർക്യൂട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പാരാമീറ്ററുകൾ എന്ന് വിളിക്കുന്നു ആദ്യം ഇംപിഡൻസ് പാരാമീറ്ററുകൾ മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും എന്താണ് ഇംപിഡൻസ് പാരാമീറ്ററുകൾ ഇപ്പോൾ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണാനാകുന്നതുപോലെ വോൾട്ടേജ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ കറന്റ് കൊടുക്കുന്നതോ ആകാം ഇവിടെ ഇരുവശത്തും നമ്മൾ വോൾട്ടേജ് സ്രോതസ്സ് പ്രയോഗിക്കുന്നു കറന്റ് നെറ്റ്വർക്കിലേക്ക് ഒഴുകുന്നു അല്ലെങ്കിൽ കറന്റ് സ്രോതസ്സ് ഇരുവശത്തും പ്രയോഗിക്കാൻ കഴിയും അങ്ങനെ അത് നെറ്റ്വർക്കിനുള്ളിൽ ഒഴുകുന്നു ഇപ്പോൾ ഇംപിഡൻസ് പാരാമീറ്ററുകൾ നിർണ്ണയിക്കാൻ ടെർമിനൽ വോൾട്ടേജുകൾ അവയുടെ ടെർമിനൽ കറന്റ് അനുസരിച്ച് പ്രകടിപ്പിക്കുന്നു ഈ പ്രത്യേക ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ ടെർമിനൽ വോൾട്ടേജും ടെർമിനൽ കറന്റും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് z11 z12 z21 z22 എന്നീ ചില പാരാമീറ്ററുകൾ ഉണ്ടെന്ന് കരുതുക അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക നമുക്ക് എഴുതാം മാട്രിക്സ് രൂപത്തിൽ നിങ്ങൾക്ക് ഈ രണ്ട് സമവാക്യങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും നമുക്ക് ഹ്രസ്വ രൂപത്തിൽ എന്നും കറന്റ് വെക്റ്റർ എന്നും എഴുതാം അതിനാൽ ന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മാട്രിക്സ് കാണുന്നതിനെ ഇംപിഡൻസ് പാരാമീറ്ററുകൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് z പാരാമീറ്ററുകൾ parameters എന്ന് പറയാനും കഴിയും z എന്നത് ഇംപിഡൻസ് പാരാമീറ്റർ ആയതിനാൽ ഇത് ഓമുകളിൽ പ്രതിനിധീകരിക്കും കറന്റ് 0 അല്ലെങ്കിൽ കറന്റ് 0 സജ്ജീകരിച്ചുകൊണ്ട് പാരാമീറ്ററുകളുടെ മൂല്യം കണക്കാക്കാം അതിനർത്ഥം ആദ്യം നിങ്ങൾ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ആക്കും 0 അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് 0 ആക്കും ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടുകൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നതിലൂടെ ഈ z പാരാമീറ്ററുകൾ ലഭിക്കുന്നതിനാൽ അവയെ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്ററുകൾ എന്നും വിളിക്കുന്നു ഇപ്പോൾ മാട്രിക്സിൽ കണ്ട z അളവുകളുടെ മൂല്യങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് നോക്കാം അവ എന്നിവയാണ് അതിനാൽ നിങ്ങൾ ഈ സമവാക്യത്തിൽ ആദ്യത്തെ കറൻറ് 0 ഇടുകയാണെങ്കിൽ നിങ്ങൾ 0 സജ്ജമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നിവ ലഭിക്കും അതുപോലെ ഇപ്പോൾ ഈ സമവാക്യത്തിൽ നിങ്ങൾ 0 ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം ലഭിക്കും അതിനാൽ ഇത് നിങ്ങൾക്ക് നെറ്റ്വർക്കിന്റെ z പാരാമീറ്ററുകൾ അല്ലെങ്കിൽ ഇംപിഡൻസ് പാരാമീറ്ററുകൾ കണക്കാക്കാം ഇപ്പോൾ നിങ്ങൾ 0 സജ്ജമാക്കുമ്പോൾ ഇത് കണക്കാക്കപ്പെടുന്നതിനാൽ നെ ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ് ആണെന്ന് നിങ്ങൾ പറയും അതുപോലെ ഓപ്പൺ സർക്യൂട്ട് ഔട്ട്പുട്ട് ഇംപെഡൻസാണ് കാരണം നിങ്ങൾ 0 സജ്ജമാക്കുമ്പോൾ അതും വിലയിരുത്തപ്പെടുന്നു പോർട്ട് 1 മുതൽ പോർട്ട് 2 വരെയുള്ള ഓപ്പൺ സർക്യൂട്ട് ട്രാൻസ്ഫർ ഇംപെഡൻസാണ് പോർട്ട് 2 മുതൽ പോർട്ട് 1 വരെയുള്ള ഓപ്പൺ സർക്യൂട്ട് ട്രാൻസ്ഫർ ഇംപിഡൻസ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ എന്നിവ വിലയിരുത്തുന്നതിന് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആക്കുകയും പോർട്ട് 1ലേക്ക് ഒരു വോൾട്ടേജ് V1 അല്ലെങ്കിൽ കറന്റ് ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് മൂല്യങ്ങൾ കണ്ടെത്താൻ കഴിയും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ V1 V2 എന്നിവയുടെ മൂല്യം കണ്ടെത്തുകയും തുടർന്ന് എന്നീ മൂല്യം നേടുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ വോൾട്ടേജ് V2 അല്ലെങ്കിൽ കറന്റ് പോർട്ട് 2 ലേക്ക് ബന്ധിപ്പിച്ച് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആയി സൂക്ഷിക്കും തുടർന്ന് നിങ്ങൾക്ക് V2 V1 എന്നിവയുടെ മൂല്യം കണ്ടെത്താനാകും ഈ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം കണക്കാക്കാം ചിത്രത്തിന്റെ സഹായത്തോടെ ഈ നടപടിക്രമം എളുപ്പത്തിൽ മനസിലാക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ 2 പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് 0 ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം ലഭിക്കും അതുപോലെ നിങ്ങൾ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ആയി സൂക്ഷിക്കുകയാണെങ്കിൽ അതിനർത്ഥം 0 എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം ലഭിക്കും അതിനാൽ ഇംപിഡൻസ് പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ എങ്ങനെ കണക്കാക്കാം എന്നതിനെക്കുറിച്ച് ഈ രണ്ട് ചിത്രങ്ങൾ സംഗ്രഹിക്കുന്നു ഇപ്പോൾ ചിലപ്പോൾ എന്നിവയെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസുകൾ എന്നും എന്നിവയെ ട്രാൻസ്ഫർ ഇംപിഡൻസ് എന്നും വിളിക്കുന്നു രണ്ട് ടെർമിനൽ ഉപകരണത്തിന്റെ ഇൻപുട്ട് ഇംപെഡൻസാണ് ഡ്രൈവിംഗ് പോയിൻറ് ഇംപിഡൻസ് അതിനാൽ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടുള്ള ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസാണ് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് സമമിതിയാണെന്ന് അർത്ഥമാക്കുന്നു ഇതിനർത്ഥം നെറ്റ്വർക്കിന് മധ്യരേഖയിൽ ഒരു കണ്ണാടി വയ്ക്കുന്നത് പോലെയുള്ള സമമിതി ഉണ്ട് അതിനാൽ മധ്യരേഖ എന്തായിരിക്കും നെറ്റ്വർക്കിനെ സമാനമായ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു വരയാണ് മധ്യരേഖ അതിനാൽ പോർട്ട് വോൾട്ടേജുകളും കറൻറുകളും മാറ്റാതെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ കഴിയുമെങ്കിൽ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് സമമിതിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നിവ തുല്യമായതിനാൽ നെറ്റ്വർക്ക് സമമിതിയാണെന്നും ഇരുവശത്തുമുള്ള ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസായ മൂല്യങ്ങൾ തുല്യമാണെന്നും നിങ്ങൾ അർത്ഥമാക്കും ഇരുവശത്തും ഉള്ള സ്രോതസ്സോ വോൾട്ടേജോ കറൻറോ പരസ്പരം മാറ്റമില്ലാതെ സർക്യൂട്ട് പാരാമീറ്ററുകൾ പരസ്പരം കൈമാറ്റം ചെയ്യാനാകും ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു മാനദണ്ഡം രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ലീനിയർ ആണെന്നും ആശ്രിത സ്രോതസ്സുകൾ ഇല്ലെന്നും ആണ് അതിനാൽ ഇതാണ് അവസ്ഥ എങ്കിൽ ട്രാൻസ്ഫർ ഇംപെൻഡൻസുകളും തുല്യമാണെങ്കിൽ രണ്ട് പോർട്ട് റെസിപ്രോക്കൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം എക്സെറ്റേഷന്റെയും പ്രതികരണത്തിന്റെയും പോയിന്റുകൾ പരസ്പരം മാറ്റാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം എന്നാൽ ട്രാൻസ്ഫർ ഇംപിഡൻസ് അതേപടി തുടരും അതിനാൽ ഈ ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് ഇത് മനസിലാക്കാൻ കഴിയും അതിൽ ഇൻപുട്ട് പോർട്ടായ ഒരു പോർട്ടിൽ നമ്മൾ വോൾട്ടേജ് പ്രയോഗിക്കുന്നു ഔട്ട്പുട്ട് പോർട്ടിൽ കറന്റിൻറെ മൂല്യം കണ്ടെത്താൻ നമ്മൾ അമ്മീറ്റർ ചേർക്കുന്നു അതിനാൽ ഇത് റെസിപ്രോക്കൽ ആയ രണ്ട് പോർട്ട് നെറ്റ്വർക്കാണെങ്കിൽ നിങ്ങൾ വോൾട്ടേജ് സ്രോതസ്സ് ന്റെ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റുകയും അമ്മീറ്റർ നിങ്ങൾക്ക് ഒരേ അളവു രേഖപ്പെടുത്തുകയും ചെയ്യും അതിനാൽ ആ രീതിയിൽ നിങ്ങൾക്ക് സർക്യൂട്ട് ഒരു റെസിപ്രോക്കൽ സർക്യൂട്ട് ആണെന്ന് പറയാൻ കഴിയും അതിനായി നമ്മൾ സ്ഥിരീകരിക്കേണ്ട വ്യവസ്ഥ ആദ്യം അത് ആശ്രിത ഉറവിടങ്ങളില്ലാതെ ലീനിയർ ആയിരിക്കണം തുടർന്ന് ട്രാൻസ്ഫർ ഇംപെൻഡൻസുകൾ തുല്യമായിരിക്കണം അതായത് ഇപ്പോൾ ഏതെങ്കിലും രണ്ട് നെറ്റ്വർക്ക് റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ഇൻഡക്റ്റർ resistor capacitor inductor എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ട് പോർട്ട് നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആയിരിക്കണം അതിനാൽ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് നിങ്ങൾക്ക് ഒരു റെസിപ്രോക്കൽ ശൃംഖല ഉള്ളപ്പോൾ ആ നെറ്റ്വർക്കിന് തുല്യമായ T സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് പകരം വയ്ക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഈ T സർക്യൂട്ട് കാണുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ബോക്സിനുള്ളിലുള്ള അജ്ഞാതമായ നെറ്റ്വർക്കിനെ T തുല്യമായ സർക്യൂട്ട് ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാൻ കഴിയും അവിടെ V1 I1 ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറന്റും V2 I2 മറ്റേ പോർട്ടിൽ ഉളള ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും ആണ് ഇപ്പോൾ T തുല്യമായ സർക്യൂട്ട് പാരാമീറ്ററുകളുടെ മൂല്യം എന്താണ് T തുല്യമായ ഇംപിഡൻസുകളുടെ മൂല്യങ്ങൾ ഇടത് വശത്തേത് പോലെ ആയിരിക്കും Tയുടെ ആദ്യ പദമായ Z11 Z12ന്റെ മൂല്യം ഉണ്ടെന്ന് നിങ്ങൾ കാണും തുടർന്ന് വലതുവശത്ത് അത് Z22 Z12 ആണ് അത് T യുടെ വലത് പാദവും തുടർന്ന് Z12 ആയ ബ്രാഞ്ച് മധ്യഭാഗത്തുള്ള നോഡിനെയും റഫറൻസ് നോഡിനെയും ബന്ധിപ്പിക്കുന്നു അതിനാൽ T തുല്യമായ സർക്യൂട്ടിലേക്ക് ഒരു നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ കാണാം അല്ലെങ്കിൽ ഇത് Y തുല്യമായ സർക്യൂട്ട് എന്നും നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം Y അല്ലെങ്കിൽ T സാഹിത്യത്തിൽ പരസ്പരം മാറിമാറി ഉപയോഗിക്കുന്നു എന്നാൽ മിക്കപ്പോഴും നിങ്ങൾ ഇത് ഒരു T തുല്യമായി കണക്കാക്കുന്നുവെന്ന് പറയും ഇപ്പോൾ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ അല്ലെങ്കിൽ മുമ്പത്തെ സ്ലൈഡുകളിൽ നമ്മൾ കണ്ട സമവാക്യങ്ങളുടെ സഹായത്തോടെ

അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളും ഒരു തുല്യ സർക്യൂട്ടിന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കാം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് എന്ന് വിളിക്കുന്ന ഒരു ഇംപിഡൻസ് ഉണ്ടെന്നും ഇതിനോടൊപ്പം ന്റെ മൂല്യമുള്ള ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ശ്രേണിയിൽ ഉണ്ടെന്നും നിങ്ങൾ കണ്ടാൽ V1ന്റെ മൂല്യം എന്തായിരിക്കും ഈ വശത്ത് നിന്ന് പോർട്ടിനു കുറുകെ പ്രയോഗിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ കറന്റ് I2 ഇംപിഡൻസ് Z22 വഴി ഒഴുകുന്നു ഒപ്പം മൂല്യമുള്ള ഒരു ആശ്രിത വോൾട്ടേജ് ഉറവിടവുമുണ്ട് ഇപ്പോൾ ഈ പ്രത്യേക പോർട്ടിനായി നിങ്ങൾക്ക് ലൂപ്പ് സമവാക്യം എഴുതണമെങ്കിൽ എന്ന് എഴുതാൻ കഴിയും അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ട അതേ സമവാക്യങ്ങളാണിവ അതിനാൽ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ സഹായത്തോടെ ഏത് രണ്ട് പോർട്ട് നെറ്റ്വർക്കിനും തുല്യമായി പ്രതിനിധീകരിക്കാമെന്നാണ് ഇതിനർത്ഥം അതിനാൽ ഇവിടെ ഇത് റെസിപ്രോക്കൽ ആകണമെന്നില്ല കാരണം ഇത് z പാരാമീറ്ററുകൾ ഉള്ള ഒരു ജനറിക് തുല്യമായ നെറ്റ്വർക്കാണ് അതേസമയം പൊതുവായ സർക്യൂട്ടിന് മുകളിൽ നമ്മൾ കണ്ട ചിത്രം T തുല്യമായ സർക്യൂട്ട് ആണ് ഇത് നിങ്ങളുടെ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകുമ്പോൾ മാത്രം ബാധകമാണ് അതിനാൽ സർക്യൂട്ടിന്റെ വിശകലനത്തിൽ നിർദ്ദിഷ്ട വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് സർക്യൂട്ടുകളാണ് ഇവ 2 പോർട്ട് നെറ്റ്വർക്കിനായി നമ്മൾ മനസിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി 2 പോർട്ട് നെറ്റ്വർക്കുകളിൽ ചിലതിന് z പാരാമീറ്ററുകൾ ഇല്ല കാരണം അവ നമ്മൾ കണ്ട z പാരാമീറ്റർ സമവാക്യങ്ങളാൽ വിവരിക്കാൻ കഴിയില്ല അതിനാൽ ഈ രണ്ട് z പാരാമീറ്റർ സമവാക്യങ്ങളുടെ സഹായത്തോടെ നിങ്ങൾക്ക് രണ്ട് പോർട്ട് നെറ്റ്വർക്കിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ രണ്ട് പോർട്ട് നെറ്റ്വർക്കിനെ z പാരാമീറ്ററുകളുടെ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ എന്താകാം ഉദാഹരണം നിങ്ങൾ ഒരു അനുയോജ്യമായ ട്രാൻസ്ഫോർമർ പരിഗണിക്കുകയാണെങ്കിൽ ചുവടെയുള്ള ചിത്രത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ട്രാൻസ് റേഷ്യോ 1n ഉള്ള ഒരു ഉത്കൃഷ്ട മാതൃക ട്രാൻസ്ഫോർമറാണ് അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് V1 എഴുതാൻ കഴിയുംഅത് V2n ഉം I1 nI2 ഉം ആണ് ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് ഈ രണ്ട് സമവാക്യങ്ങളെ z പാരാമീറ്റർ സമവാക്യങ്ങളുടെ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉത്കൃഷ്ട മാതൃക ട്രാൻസ്ഫോർമറുകളുടെ കാര്യത്തിൽ നമുക്ക് z പാരാമീറ്ററുകൾ കണക്കാക്കാൻ കഴിയാത്തത് എന്നാൽ നമുക്ക് അടുത്ത പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഹൈബ്രിഡ് പാരാമീറ്ററുകൾ ഉണ്ടായിരിക്കാം അതിനാൽ എല്ലാ സർക്യൂട്ടുകളെയും തുല്യമായ z പാരാമീറ്ററുകളിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയില്ലെന്ന് ഓർമിക്കേണ്ടതുണ്ട് ചിലത് ഉത്കൃഷ്ട മാതൃക ട്രാൻസ്ഫോർമർ ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെയാണ് ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ z പാരാമീറ്ററുകളുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്ത ആശയം നമുക്ക് മനസിലാക്കാം അതിലൂടെ നിങ്ങൾക്ക് ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിനായുള്ള z പാരാമീറ്ററുകൾ കണ്ടെത്തേണ്ട ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത സർക്യൂട്ട് ആദ്യം ഉപയോഗിക്കണം അപ്പോൾ എന്താണ് ഈ രണ്ട് സർക്യൂട്ടുകൾ ആദ്യം നിങ്ങൾ I2 0 ആകുമ്പോൾ ഉളള സർക്യൂട്ട് സൃഷ്ടിക്കുക രണ്ടാമതായി നിങ്ങൾ I1 0ന് തുല്യമാക്കുമ്പോൾ ഉളളത് കൂടാതെ Z പാരാമീറ്ററുകളുടെ മൂല്യം നിങ്ങൾ കണ്ടെത്തും അതിനാൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇൻപുട്ട് പോർട്ടിൽ നമ്മൾ V1 വോൾട്ടേജ് പ്രയോഗിക്കുന്നു കറൻറ് I1 നമ്മൾ കണ്ടെത്തും മറുവശത്ത് V2 ഉണ്ടെങ്കിലും കറൻറ് I2 0 ആണ് ഇപ്പോൾ z21 നായി ഇപ്പോൾ അടുത്തതായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടായി സൂക്ഷിക്കുകയും ഔട്ട്പുട്ട് പോർട്ടിന് കുറുകെ വോൾട്ടേജ് V2 പ്രയോഗിക്കുകയും വേണം നമ്മൾ I2 ന്റെ മൂല്യം അളക്കുന്നു അപ്പോൾ Z12ന്റെ മൂല്യം എന്തായിരിക്കും I1 0ന് തുല്യമായതിനാൽ V1ന്റെ മൂല്യം വീണ്ടും 40 ഓം റെസിസ്റ്റൻസിന് കുറുകെ ആയിരിക്കും

ഇപ്പോൾ അടുത്തതായി നിങ്ങൾ അതിന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട്

അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് z മാട്രിക്സ് സംഗ്രഹിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക മാട്രിക്സ് കാണുകയാണെങ്കിൽ z12 40 z21 എന്ന് നിങ്ങൾ കാണു നിങ്ങൾക്ക് ഈ സർക്യൂട്ടിനെ T തുല്യമായി പ്രതിനിധീകരിക്കാമെന്നാണ് ഇതിനർത്ഥം എന്തായാലും ഈ സർക്യൂട്ട് തന്നെ T തുല്യമായി പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇത് റെസിപ്രോക്കൽ സർക്യൂട്ട് ആണ് ഉദാഹരണത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ട് T തുല്യമായ സർക്യൂട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് z പാരാമീറ്ററുകളുടെ മൂല്യം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഈ രണ്ട് സർക്യൂട്ടുകളും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക്

എന്ന് പറയാം

അവസാനമായി ന്റെ മൂല്യം അതിനാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കും അതിനാൽ z പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് z പാരാമീറ്റർ സമവാക്യങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു സർക്യൂട്ടിനെ T തുല്യമായി പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് സർക്യൂട്ടിനെ T തുല്യമായ സർക്യൂട്ടുമായി താരതമ്യം ചെയ്യാം ഉടൻ തന്നെ നിങ്ങൾക്ക് z പാരാമീറ്ററുകളുടെ മൂല്യം കണ്ടെത്താൻ കഴിയും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം സർക്യൂട്ട് Z പാരാമീറ്ററുകൾ എന്നിവയുടെ മൂല്യം കണ്ടെത്താൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഈ സാഹചര്യത്തിൽ ന് തുല്യമല്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അതിനർത്ഥം സർക്യൂട്ട് റെസിപ്രോക്കൽ അല്ല എന്നാണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നിവയുടെ മൂല്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ z പാരാമീറ്റർ സമവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് പാരാമീറ്റർ സമവാക്യങ്ങൾ എഴുതുകയാണെങ്കിൽ അത് z പാരാമീറ്റർ സമവാക്യങ്ങളാണ് അതിനാൽ ഇപ്പോൾ സർക്യൂട്ട് വോൾട്ടേജ് ഉം ഉം ആണ് കാരണം ഈ ദിശയിലാണ് അതിനാൽ ഈ രണ്ട് മൂല്യങ്ങളും നമുക്ക് സർക്യൂട്ടിൽ നിന്ന് ലഭിക്കും അതിനാൽ നമുക്ക് ഈ മൂല്യങ്ങളെ മുകളിലുള്ള സമവാക്യത്തിൽ ഉൾപ്പെടുത്താം അതിനാൽ നമുക്ക് എന്ന് ലഭിക്കും സമവാക്യം 1 എന്ന ഈ സമവാക്യത്തിൽ നിങ്ങൾ I1ന്റെ മൂല്യം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറയാൻ കഴിയും നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ അവസ്ഥയിൽ നിങ്ങൾ ന്റെ മൂല്യം നൽകുമ്പോൾ അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക ഇതുവഴി നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം കണക്കാക്കാം ഇപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ കുറച്ച് പാരാമീറ്ററുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്യും